ഈ കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെട്ടു എന്ന് ഇവിടെ നമ്മൾ കണക്കാക്കുന്നു ഇതിന്റെ വോൾട്ടേജ് v0 പറയുന്നു ഇത് എല്ലായ്പ്പോഴും ചാർജ് ചെയ്യപ്പെടുമെന്നല്ല v0 0 ഉം ആകാം ഇവിടെ ഈ കപ്പാസിറ്റർ തുടക്കത്തിൽ v0 ൽ ചാർജ് ചെയ്യപ്പെട്ടുവെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ കപ്പാസിറ്ററിലെ പ്രാരംഭ വോൾട്ടേജ് v0 എന്ന് കരുതുക സ്റ്റെപ്പ് പ്രതികരണത്തിന് ഇത് ആവശ്യമില്ല അതിനാൽ ഒരു കപ്പാസിറ്ററിന്റെ വോൾട്ടേജിന് തൽക്ഷണം ഈ മാറ്റത്തിനനുസരിച്ചു ചാർജ് ചെയ്യാൻ കഴിയില്ല അത് v0 v0 ആയിരിക്കും ഈ സർക്യൂട്ടിനായി ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വിച്ച് അടുത്തില്ലാത്തപ്പോൾ ഈ കപ്പാസിറ്റർ വോൾട്ടേജ് v0 ൽ ചാർജ്ജ് ചെയ്യപ്പെട്ടുവെന്ന് കരുതുക ഈ വോൾട്ടേജ് v0 യെ എനിക്ക് v v0 എന്ന് വിളിക്കാം അതിനാൽ സ്വിച്ച് അടച്ചാലുടൻ കപ്പാസിറ്റർ വോൾട്ടേജിന് തൽക്ഷണം മാറാൻ കഴിയില്ല അത് യഥാർത്ഥത്തിൽ v0 ആയിരിക്കും സ്വിച്ചുചെയ്യുന്നതിന് തൊട്ടുമുമ്പും സ്വിച്ച് ചെയ്തതിനുശേഷം തൽക്ഷണം മാറാൻ കഴിയില്ല നേരത്തെ നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ v0 v0 ആയിരിക്കും ഇത് സ്വിച്ചു ചെയ്യുന്നതിന് തൊട്ടുമുമ്പും സ്വിച്ച് ചെയ്തതിനുശേഷവും ആയിരിക്കും ഇപ്പോൾ നമുക്ക് സർക്യൂട്ടിലേക്ക് വരാം ഇതിന് v0 v0 നൽകിയിരിക്കുന്നു ഈ രീതിയിൽ i v0 എന്ന് എഴുതിയിട്ടുണ്ട് സ്വിച്ച് ചെയ്യുന്നതിന് തൊട്ടുമുമ്പും സ്വിച്ച് ചെയ്തതിനുശേഷവും കപ്പാസിറ്റർ വോൾട്ടേജിന് തൽക്ഷണം മാറാൻ കഴിയില്ല ഇത് സമവാക്യം 44 ആണ് ഇവിടെ സ്വിച്ചുചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കപ്പാസിറ്ററിലുടനീളം v0 വോൾട്ടേജും സ്വിച്ച് ചെയ്തതിനുശേഷം കപ്പാസിറ്ററിലുടനീളം v0 വോൾട്ടേജും ആയിരിക്കും KVL പ്രയോഗിക്കുമ്പോൾ Vs utR c dvdt എന്ന് വിളിക്കുന്നത് v നെ ആണ് t0 ആയിരിക്കുമ്പോൾ ഇത് 1 ആണ് ഇത് അടിസ്ഥാനപരമായി v v VsR c dvdt 0 ആയിരിക്കും ഇതാണ് Vs ഇത് ut ഇത് Vs ut ഇത് R ആയിരുന്നു അത് കപ്പാസിറ്ററായിരുന്നു ഈ വോൾട്ടേജ് v ആയിരുന്നു ഈ പോയിന്റിലെ കറന്റ് ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ itR v v അതായത് R ഈ V നെ R കൊണ്ട് ഹരിക്കുന്നു ഇത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ് ഇവിടെ ഏതെങ്കിലും പോയിന്റ് a ആണെന്ന് കരുതുക ഇപ്പോൾ ഒരു കറന്റ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് പോകുന്നത് ഇതുപോലെ ചിന്തിക്കുക ic നെഗറ്റീവ് ആണെങ്കിലും നിലവിലെ ഒരു ic ഇതുപോലെ പോകുന്നു അതിനാൽ ഈ പോയിന്റിൽ KCL എന്ത് പ്രയോഗിക്കുന്നുവെങ്കിൽ ഇത് v Vs ut ആയിരിക്കും അതിനാൽv Vs utR നെ R c കൊണ്ട് ഹരിക്കുന്നു ഈ കപ്പാസിറ്റർ c dv dt 0 സ്വിച്ച് അടച്ചാലുടൻ 0 എന്നതിനേക്കാൾ വലുതായ ut 1 എന്നതിനാലാണ് ഇത് ഇവിടെ എഴുതിയത് പക്ഷേ അതിനുശേഷം ഈ Vs ut Vs ut ഇത് ഇതുപോലെ എഴുതിയിട്ടുണ്ട് എന്നാൽ ut 1 അതിലേക്ക് വരും ലളിതമാക്കുകയാണെങ്കിൽ ഇത് dv dt v Rc Vs Rc ut ആണ് ഇപ്പോൾ 0 നെക്കാൾ വലുതായി എന്നർത്ഥം ആ സമയത്ത് നമ്മൾ കണ്ട യൂണിറ്റ് ഫംഗ്ഷന് ut 1 എന്നാണ് t0 ൽ ut 0 ആണ് t0 ൽ ut 1ആണ് അത് കൊണ്ടാണ് ഡെറിവേറ്റേഷനിൽ ut ഇല്ലാത്തതു കാരണം t0 ൽ ഒരു പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുകയാണ് കുറച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ് 0 എന്നതിനേക്കാൾ വലിയ t0 എന്നതിനേക്കാൾ വലിയ t യുടെ പ്രതികരണം കണ്ടെത്തുക എന്നതാണ് ഈ സമവാക്യം 45 ആയിത്തീരുന്നു ut 1 ആണ് ഇത് dv dt v Rc Vs Rc അല്ലെങ്കിൽ dv dt ലളിതവൽക്കരണം v v Vs Rc അല്ലെങ്കിൽ dv v Vs dt Rc ഇത് സമവാക്യം 46 ആണ് ഇപ്പോൾ ഇരുവശവും സംയോജിപ്പിക്കുക തുടക്കത്തിൽ പ്രാരംഭ വോൾട്ടേജിലുടനീളം കപ്പാസിറ്റർ വോൾട്ടേജ് v0 ആയിരുന്നു ടൈം t ആയിരിക്കുമ്പോൾ അത് vt ആണ് അതിനാൽ v0 മുതൽ vt വരെ dv v Vs 1 Rc വരെ ആ സംയോജനം 0 മുതൽ t dt വരെ ചെയ്യുന്നു ഇത് നാച്ചുറൽ ലോഗുമായി സമന്വയിപ്പിക്കുകയാണെങ്കിൽ ln v Vs പരിധി സംയോജന പരിധി v0 മുതൽ vt t Rc വരെ ഇവിടെ 0 മുതൽ t വരെ ഇത് l n v Vs v0 Vs t Rc അതായത് v0 അതിനാൽ ഇത് നാച്ചുറൽ ലോഗ് എന്നാൽ അടിസ്ഥാന e യുടെ ലോഗ് എന്നാണ് അതിനാൽ ഇത് v Vs v0 Vs e t C Rc Rc സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് ഇത് Rc ആണ് ഇതാണ് സമവാക്യം 47 അതിനാൽ vt ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി ലളിതമാക്കുക vt Vs v0 Vse t എന്നെഴുതാം ഇത് എഴുതേണ്ട ഓരോ സമയത്തും ഇത് 0 ക്കാൾ വലുതാണ് അതിനാൽ നമുക്ക് ഇങ്ങിനെ എഴുതാൻ കഴിയും vt v0 എന്ന് തുടക്കത്തിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്തത് വോൾട്ടേജ് v0 ആണ് അത് 0 ൽ താഴെയാണ് അതായത് വോൾട്ടേജിന്റെ റെസ്പോൺസ് t0 ന് vt v0 എന്ന് എഴുതാൻ കഴിയും കൂടാതെt0 ആകുന്ന ടൈമിൽ vt Vs v0 Vs e tτ ആയിരിക്കും ഇതിനെ ആണ് നമ്മൾ കമ്പ്ലീറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് അതിനാൽ ഈ വഴിക്ക് എഴുതാൻ കഴിയും ഇതിനെ സമ്പൂർണ്ണ പ്രതികരണം എന്ന് വിളിക്കുന്നു അതായത് പൊതുവെ t0 ആയിരിക്കുമ്പോൾ ∞ ആയിരിക്കും t0 ആയിരിക്കുമ്പോൾ ∞ എന്നാൽ നേരത്തെ പറഞ്ഞത് 5 τ സമയ സ്ഥിരത വരെ അടിസ്ഥാനപരമായി അവയെ ഡൈനാമിക് സർക്യൂട്ട് പ്രതികരണങ്ങൾ എന്ന് പറയുമെന്ന് അറിയുക അത് t 5 എന്നതിന് സ്ഥിരമായ അവസ്ഥയിലെത്തുന്നു കാരണം ഇത് പീക്ക് മൂല്യത്തിന്റെ 1 ശതമാനത്തിൽ താഴെ ആയി മാറുന്നു സമവാക്യം 49 Rc സർക്യൂട്ടിന്റെ ആകെ പ്രതികരണം dc വോൾട്ടേജ് യുടെ പെട്ടെന്നുള്ള പ്രയോഗത്തിന് നൽകുന്നു അതായത് കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെട്ടുവെന്ന് കരുതി നമ്മൾ പ്രയോഗിക്കുന്ന Rc സർക്യൂട്ട് ഇപ്പോൾ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്തിട്ടില്ലെന്ന് കരുതുന്നുവെങ്കിൽ അതിനർത്ഥം v0 0 എന്നാണ് ഇവിടെ v0 0 ആണെങ്കിൽ vt 0 ആയിരിക്കും t0 ൽ താഴെയാണെങ്കിൽ ഇവിടെയും Vs v0 0 അതായതു അത് Vs 1 e tτ ഇവിടെ ഇത് 0 ന് 0 ന് താഴെയാണ് കൂടാതെ ഇത് Vs 1 e പവറിന് t 0 0 നെക്കാൾ വലുതാണ് ഇത് സമവാക്യം 50 ആണ് അതിനാൽ ഇതിനർത്ഥം മാറിമാറി ഈ സമവാക്യത്തിന് ഇത് എഴുതാൻ കഴിയും ഈ സമവാക്യം മറ്റൊരു വിധത്തിൽ അത് vt Vs 1 e to പവറിന് t to ut കാരണം ut എന്നതിന് എഴുതിയത് 0 ന് താഴെയുള്ള അറിവാണ് ut 1 t 0 ൽ കുറവാണെങ്കിൽ ut 0 vt 0 ആയിരിക്കും അതിനാൽ ഇത് 0 ഉം 0 ന് 0 ന് വലുതാണെങ്കിൽ ut1 ഉം ആണ് അതിനാൽ ut 1 ആയിരിക്കുമ്പോൾ അത് Vs 1 e t τ ആയിരിക്കും ഇവ രണ്ടും സംയോജിപ്പിച്ച് നമുക്ക് vt Vs 1 e tτ ut എന്ന് എഴുതാൻ കഴിയും ഇത് സമവാക്യം 51 ആണ് കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യാത്തപ്പോൾ RC സർക്യൂട്ടിന്റെ പൂർണ്ണ പ്രതികരണം നൽകുന്നതാണ് ഈ സമവാക്യം 51 കപ്പാസിറ്ററിലൂടെയുള്ള വൈദ്യുതധാര 50 എന്ന സമവാക്യത്തിൽ നിന്ന് ലഭിക്കും i t C dv dt എന്ന് നമുക്ക് എഴുതാം ഈ 1 എന്നതിന് dvtdt എന്ന സമവാക്യത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുക അതിനാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള i t c dv dt 0 നെക്കാൾ വലുതായി എഴുതണം അതായത് cτtVs e tτ ഈ സമവാക്യത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുക അതിനാൽ ഇത് അടിസ്ഥാനപരമായി ആയിരിക്കും ഇത് c Vs e e tτ ആണ് Τ RC അതിനാൽ ഇവിടെ τ CR എന്ന് പറയാം അതിനാൽ τ CR ഇടുകയാണെങ്കിൽ അത് 1 R ആയിരിക്കും അതിനാലാണ് Vs R e t τ ഇവിടെ 0 ut 0 ൽ താഴെയുള്ള അതേ തത്ത്വചിന്തയാണ് സർക്യൂട്ട് തുറന്നതിനാൽ 0 എന്നതിനേക്കാൾ വലുത് ut 1 അതിനാൽ തന്നെ ഇത് വീണ്ടും ut ഗുണിതമാണ് കാരണം ആ സമയത്ത് 0 ൽ താഴെയുള്ള സ്വിച്ച് തുറന്നിരുന്നു അതിനാൽ ഇപ്പോൾ സമവാക്യം 48 എന്ന് തിരുത്തിയെഴുതി ഇത് വീണ്ടും ഒരു സമവാക്യം 40 ആണെങ്കിൽ ഇത് ഒരു vt Vs v0 Vs e t τ അതായത് vt Vss vt എന്ന് എഴുതാം vt സ്ഥിരമായ സംസ്ഥാന പ്രതികരണമാണ് ക്ഷണികമായ പ്രതികരണം അതിനാൽ പൂർണ്ണ പ്രതികരണം vt എന്നത് പൂർണ്ണമായ പ്രതികരണം സ്ഥിരമായ സംസ്ഥാന പ്രതികരണം ക്ഷണികമായ പ്രതികരണം Vss vt ഇതിനെയാണ് Vs എന്ന് വിളിക്കുന്നത് സ്ഥിരമായ സംസ്ഥാന പ്രതികരണവും ഇത് ക്ഷണികമായ പ്രതികരണവുമാണ് കാരണം t ∞ ലേക്ക് പ്രവണത കാണിക്കുമ്പോൾ സർക്യൂട്ട് സ്ഥിരമായ അവസ്ഥയിലെത്തുന്നു ഇത് സംഖ്യകൾ പരിഹരിക്കുന്നതിന് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടതുണ്ട് ഈ സർക്യൂട്ടിലേക്ക് വന്നാൽ ഈ സ്വിച്ച് DC ക്കായി ദീർഘനേരം അടയ്ക്കുമ്പോൾ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു ആ സമയത്ത് t 1 ആണെങ്കിൽ ഇത് Vs മാത്രമാണ് കപ്പാസിറ്റർ തുറന്നിരിക്കുന്നു അതിന് കുറുകെയുള്ള വോൾട്ടേജ് എന്താണ് അതിനാൽ അടിസ്ഥാനപരമായി v vin ലെ ആ സ്ഥിരമായ സ്റ്റേറ്റ് വോൾട്ടേജിൽ ചിലപ്പോൾ ഞങ്ങൾ Vss സ്ഥിരമായ അവസ്ഥയെ വിളിക്കുന്നു യഥാർത്ഥത്തിൽ Vs ഈ sce വോൾട്ടേജ് കണ്ടെത്താനാകും കാരണം സ്വിച്ച് ദീർഘനേരം അടയ്ക്കുമ്പോൾ dc ലേക്ക് കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഇതുപോലെയാണ് നിർമ്മിക്കുന്നത് v Vs ആയിരിക്കും ആ സമയത്ത് സർക്യൂട്ട് പ്രാതിനിധ്യം ഇതുപോലെയാണ് അതിനാൽ ut 1 എന്തായാലും t ∞ ലേക്ക് ആകുന്ന സമയത്തെ പൂർണ്ണമായ പ്രതികരണം ആ സമവാക്യത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ പദം അപ്രത്യക്ഷമാകും t ∞ ലേക്ക് ആകുന്ന സമയം ഈ പദം അപ്രത്യക്ഷമാകും അതിനർത്ഥം ആ സമയത്ത് vt V∞ ആയിരിക്കും അത് സ്ഥിരമായ മൂല്യമാണ് അതായത് Vss Vs ആയി മാറും അതിനർത്ഥം ഇത് സ്ഥിരമായ മൂല്യം Vs ആണെന്നും ഈ ഭാഗം ഒരു ക്ഷണിക ഭാഗമാണെന്നും ഈ ഭാഗം ഒരു സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആണെന്നും അർത്ഥമാക്കുന്നു അതിനാൽ അതുകൊണ്ടാണ് Vss Vs ഇത് ക്ഷണികമായ ഭാഗമാണ് ഈ സമവാക്യം 55 ഇത് സമവാക്യം 56 ആണ് ട്രാൻസിയെന്റ് പ്രതികരണം താൽക്കാലികമാണ് അത് പൂർണ്ണമായ പ്രതികരണത്തിന്റെ ഭാഗമാണ് അതായത് 0 ആയി മാറുന്നു കാരണം t പ്രവണത കാണിക്കുമ്പോൾ ഈ ഭാഗം അപ്രത്യക്ഷമാകും അതിനാൽ അതിനർത്ഥം ട്രാൻസിയെന്റ്അപ്രത്യക്ഷമാകും അവശേഷിക്കുന്ന ഭാഗം മാത്രമേ സ്ഥിരമായ അവസ്ഥയിലാകൂ t ∞ ലേക്ക് ആകുന്ന സമയം കമ്പ്ലീറ്റ് റെസ്പോൺസ് 0 ആയി കുറയും സ്ഥിരമായ പ്രതികരണം അവസാനിച്ചതിനുശേഷം ശേഷിക്കുന്ന പൂർണ്ണ പ്രതികരണത്തിന്റെ ഭാഗമാണ് സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് അതിനാൽ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഒരു സർക്യൂട്ടിന്റെ സ്വഭാവമാണ് അതിനർത്ഥം വോൾട്ടേജ് sce അത് സ്വിച്ച് ഓൺ ആണെന്ന് കരുതുക വളരെക്കാലത്തിനുശേഷം സ്ഥിരമായ അവസ്ഥ കൈവരിക്കും അതിനാൽ സമവാക്യം 48 ന്റെ പൂർണ്ണ പ്രതികരണം ഇതുപോലെ എഴുതാം ഇത് ഇതുപോലെയായി എഴുതാം ഇതിലേക്ക് വന്നാൽ ഈ പ്രതികരണത്തിലേക്ക് വന്നാൽ ഇതാണ് at ൽ നേടുന്ന കാര്യം ഇത് പ്രാരംഭ മൂല്യമാണ് ഇത് വീണ്ടും ഈ Vs ൽ ആണ് t ന് ∞ at t പ്രവണത to V ∞ Vs ഇത് സ്ഥിരമായ സംസ്ഥാന മൂല്യമാണ് പ്രാരംഭ മൂല്യം v0 ഐക്കൺ അതിനെ v0 ആക്കുക അതായത് ഈ സമവാക്യം vt ഐക്കൺ ഇതുപോലെയുള്ള Vs സ്ഥിരമായ സംസ്ഥാന മൂല്യം അതായത് V ∞ നിർമ്മിക്കുക v0 V എന്നിട്ട് ഇത് ഒരു e e ർജ്ജത്തിലേക്ക് t അതിനർത്ഥം vt ശക്തിയിലേക്ക് V ∞ v0 v ∞ e ആയിരിക്കും t അതിനർത്ഥം പ്രാഥമിക മൂല്യം അന്തിമ മൂല്യം സ്ഥിരമായ സംസ്ഥാന മൂല്യങ്ങൾ എന്നിവ അറിയാമെങ്കിൽ സമയ സ്ഥിരത അറിയാമെങ്കിൽ എളുപ്പത്തിൽ കോം ഇ ഇ വി ടി ചെയ്യാൻ കഴിയും ഇത് സംഖ്യാ പരിഹാരത്തിനായി മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനർത്ഥം നമുക്ക് vt v എഴുതാൻ കഴിയുമെന്നാണ് ഇത് അവസാന മൂല്യം v ∞ പ്രാരംഭ മൂല്യം v0 അന്തിമ മൂല്യം v e മുതൽ e വരെ ശക്തിയിലേക്ക് t τ ഇത് സമവാക്യം 57 ആണ് അതിനാൽ സ്വിച്ച് ചെയ്തതിനുശേഷം t 0 എന്ന് പറയുന്ന പ്രാരംഭ വോൾട്ടേജാണ് v0 കാരണം കപ്പാസിറ്ററിലേക്കുള്ള കപ്പാസിറ്റർ വോൾട്ടേജിന് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ v0 v0 ഒപ്പം v ∞ അന്തിമ അല്ലെങ്കിൽ സ്ഥിരമായ സംസ്ഥാന മൂല്യം അതിനാൽ ഈ സമവാക്യം vt നെ v ∞ v0 v ∞ ബ്രാക്കറ്റ് എന്ന് e ർജ്ജത്തിന് അടുത്തായി എഴുതാം t അതിനാൽ t സമയം t t0 ൽ സ്വിച്ച് സ്ഥാനം മാറ്റുകയാണെങ്കിൽ അത് പരിഗണിക്കുന്നതെന്തും t 0 ആണെന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ സ്വിച്ച് t t0 സമയത്ത് സ്ഥാനം മാറ്റുകയാണെങ്കിൽ t0 ഒരു ശൂന്യമാണ് 0 ഉദാഹരണത്തിന് t 0 എന്നതിനുപകരം ആ സമവാക്യത്തിന്റെ പ്രതികരണത്തിൽ സമയ കാലതാമസമുണ്ട് 57 അതിനാൽ ഒരു സമയമുണ്ടാകും ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഈ കേസിൽ ഈ കാര്യത്തിലേക്ക് പോകുന്നതിനുമുമ്പ് ഇത് v ∞ ഇപ്പോൾ പറയുന്നതുപോലെ തുടരും ഇപ്പോൾ ഇത് t 0 ആയിരിക്കുമ്പോൾ ഇത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് t t0 ൽ ഓണാക്കുക അതിനാൽ പ്രാരംഭ മൂല്യങ്ങൾ v ആയിരിക്കും അത് vt0 v ∞ ഉള്ളതുപോലെ തന്നെ ഉണ്ടാകും അത് അവിടെയുണ്ട് തുടർന്ന് e ലേക്ക് തുടർന്ന് t t0 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു t 0 ആണെങ്കിൽ സ്വിച്ച് t 0 0 പറയുക അതിനാൽ ഇപ്പോൾ നമ്മൾ അതിനെ t t0 ആക്കുകയാണെങ്കിൽ അത് v0 ന് പകരം ആയിരിക്കും അത് vt0 ആയിരിക്കും എന്നാൽ സ്ഥിരമായ അവസ്ഥയിൽ v അതേ v ∞ vt0 v ∞ എന്നിട്ട് e t ന് പകരം അത് t t0 by കൊണ്ട് ഹരിക്കപ്പെടും അതിനാൽ ഇത് vt v എന്ന പദപ്രയോഗമാണ് ഞാൻ vt0 v ∞ എന്നിട്ട് e to power t t0 by by ഇത് സമവാക്യം 58 ആണ് ഇപ്പോൾ ഇവിടെ t t0 ലെ vt0 പ്രാരംഭ വോൾട്ടേജ് T0 0 ആണെങ്കിൽ അത് v0 ആയിരിക്കും ഇവിടെയും ഇത് 1 t ആയിരിക്കും t0 0 ആണെങ്കിൽ അതിനാൽ ഇതാണ് Rc സർക്യൂട്ട് എന്ന് വിളിക്കുന്നത് അതിനാൽ ഇപ്പോൾ ഉദാഹരണം നോക്കൂ അതിനാൽ ഇത് 41 ആണ് സ്വിച്ച് വളരെക്കാലമായി ഒരു സ്ഥാനത്താണ് ഇതിനർത്ഥം സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് എ സ്ഥാനത്ത് വളരെക്കാലം ഈ സ്ഥാനത്തായിരുന്നു ഇതൊരു ഇപ്പോൾ t 0 സമയത്ത് സ്വിച്ച് അതിന്റെ സ്ഥാനം B ആയി മാറ്റുന്നു ഇപ്പോൾ t 0 ന് സ്വിച്ച് അതിന്റെ സ്ഥാനം A ൽ നിന്ന് B ലേക്ക് മാറ്റുന്നു 0 ൽ കൂടുതലുള്ള t ന് vt നേടുക അതിന്റെ മൂല്യം t 0 5 ൽ നേടുക രണ്ടാമത്തേത് ഒപ്പം t 3 സെക്കൻഡ് ഇപ്പോൾ ഈ സ്വിച്ച് എ യിൽ വളരെക്കാലം സ്ഥാനത്തുണ്ടായിരുന്നു അതിനർത്ഥം ആ കേസിലെ സർക്യൂട്ട് ഒരു സ്ഥിരമായ അവസ്ഥയാണെന്നാണ് ഇതിനർത്ഥം കാരണം സ്വിച്ച് ഈ സ്ഥാനത്തായിരുന്നു വളരെക്കാലമായി അതിനർത്ഥം ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് എഡ് ആണ് തുടർന്ന് വോൾട്ടേജ് ഈ വോൾട്ടേജ് vt യഥാർത്ഥത്തിൽ ഈ കാര്യത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് ഇത് കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് B ആണ് കപ്പാസിറ്റർ മൂല്യം പവറിന് 10 ആണ് 3 ഫറാഡ് അതിനാൽ ആ സമയത്ത് ഇത് തുറന്നിരുന്നു എന്നാൽ ഇതിനർത്ഥം കപ്പാസിറ്റർ പ്രാരംഭത്തിലുടനീളമുള്ള കോൾ വോൾട്ടേജിന്റെ പ്രാരംഭ മൂല്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് കാരണം സ്വിച്ച് ഇപ്പോൾ നീക്കിയിരിക്കുന്നു അതിനുശേഷം t 0 സ്വിച്ച് എയിൽ നിന്ന് ബിയിലേക്ക് നീങ്ങും അതിനാൽ ഓപ്പൺ സർക്യൂട്ട് ആയതിനാൽ ആദ്യം എന്ത് സംഭവിക്കും അതായത് ഈ വോൾട്ടേജ് ഈ വോൾട്ടേജ് v ആയിരുന്നു ഇത് v ആണെന്നും ഇത് v0 ആണെന്നും പറയുക അതിനാൽ അത്തരം സാഹചര്യത്തിൽ ഇത് തുറന്നിരിക്കുന്നതിനാൽ ആദ്യം ഇവിടെ നിലവിലുള്ളത് എന്താണെന്ന് കണ്ടെത്തുക അതിനാൽ ഇതിലൂടെ നിലവിലുള്ളത് i ആണ് ഞാൻ 48 ന് തുല്യമായി 6000 10000 കൊണ്ട് ഹരിക്കുന്നു ഇത് എല്ലാ ആമ്പിയറിലും എഴുതുന്നു കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് എന്താണ് കാരണം കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണ് ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ v ഇതാണ് നിലവിലെ 48 6000 10000 ഇത് 16000 ആണ് ഈ പോയിന്റാണ് കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് 10000 ലേക്ക് വോൾട്ടേജ് കണ്ടെത്തുന്നത് അതിനാൽ ഇത് v ആണ് കാരണം സ്വിച്ച് ഈ സ്ഥാനത്തായിരുന്നു അതിനാൽ കപ്പാസിറ്റർ വളരെക്കാലം ഓപ്പൺ സർക്യൂട്ട് പതിപ്പായിരുന്നു അതിനാൽ എന്തായാലും 10000 ബൈ 6000 10000 48 എന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇതാണ് ഇത് 30 വോൾട്ട് ആയിരിക്കും അതിനർത്ഥം v0 സ്വിച്ച് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കപ്പാസിറ്ററിലുടനീളം പ്രാരംഭ വോൾട്ടേജ് 30 വോൾട്ട് ആയിരുന്നു ഇപ്പോൾ സ്വിച്ച് അടച്ചിരിക്കുന്നു അതിനാൽ അതിനർത്ഥം കപ്പാസിറ്റർ വോൾട്ടേജിന് തൽക്ഷണം മാറാൻ കഴിയില്ല എന്ന വസ്തുത ഉപയോഗിച്ച് ഏത് സ്വിച്ച് അടുത്താണ് v0 v0 v0 30 വോൾട്ട് അതിനാൽ ഇപ്പോൾ സ്വിച്ച് ഈ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തേക്ക് നീങ്ങി അതിനാൽ ഇപ്പോൾ സ്വിച്ച് ഇവിടെ നീക്കി ഈ ഭാഗം ഇല്ല സ്വിച്ച് ഈ സ്ഥാനത്ത് നിന്ന് നീങ്ങി അതിനാൽ ഈ ഭാഗം ഇല്ല അതിനാൽ കപ്പാസിറ്റർ പവറിന് 10 ആണ് 3 ഫറാഡും 8000 അതിനാൽ ആദ്യം സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് കണ്ടെത്തണം അത് പിന്നീട് 10 പവർ ആയിരിക്കും 3 മുതൽ 8000 വരെ അതിനാൽ ഇത് CR ആണ് അതിനാൽ ഇത് 8 സെക്കൻഡായി മാറും ഇത് be ആയിരിക്കും കാരണം സ്വിച്ച് ഇതിൽ നിന്ന് അതിലേക്ക് നീങ്ങി അതിനാൽ ഈ സാഹചര്യത്തിൽ τ ഞാൻ 8 സെക്കൻഡ് പറഞ്ഞു ഇപ്പോൾ കപ്പാസിറ്റർ dc ലേക്ക് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നതിനാൽ സ്ഥിരമായ അവസ്ഥയിൽ V ∞ 60 വോൾട്ട് ഇപ്പോൾ ഈ സർക്യൂട്ടിലേക്ക് വരിക ഇപ്പോൾ സ്വിച്ച് സ്ഥാനം ആയിരിക്കുമ്പോൾ എന്ത് കോൾ സ്വിച്ച് സ്ഥാനം ഇങ്ങനെയാണ് ഈ സൈറ്റ് ഇല്ല അതിനാൽ ബിയിൽ നിന്ന് നീക്കിയ B യിൽ സ്വിച്ച് അടുത്താണ് ആ സമയത്ത് മൂല്യം എന്താണ് അതാണ് V ∞ അതിനാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതിനാൽ V ∞ ന്റെ അവസാന മൂല്യം വെറും 60 വോൾട്ട് ആയിരിക്കും കാരണം ഈ 60 വോൾട്ട് ഉടനീളം പ്രയോഗിക്കുന്നു ഇതും സ്വിച്ചും ഈ സ്ഥാനത്ത് വളരെക്കാലം അടച്ചിരുന്നു അതായത് ഇത് തുറന്നിരിക്കുന്നു അതിനാൽ V 60 60 വോൾട്ടും പ്രാരംഭ വോൾട്ടേജ് v0 30 വോൾട്ടും നമുക്ക് ലഭിച്ചു τ ഞങ്ങൾക്ക് അത് 8 സെക്കൻഡാണ് അതിനാൽ ഞങ്ങൾ ആ ഫോർമുല പ്രയോഗിക്കും അതിനാൽ ഇവിടെ v ∞ 60 വോൾട്ട് ആണ് ഇപ്പോൾ vt ഈ ഫോർമുല അറിയുക vt v ∞ vt v ∞ v0 v ∞ e to power t അതിനാൽ v 60 60 വോൾട്ട് v0 330 വോൾട്ട് 60 വോൾട്ട് ഇ കണക്കാക്കി t 8 അതിനാൽ ഇത് 60 30 ഇ ടി 8 വോൾട്ടിലേക്ക് 5 സെക്കൻഡിൽ ഇവിടെ t 0 5 സെക്കൻഡിൽ ഇടുക അതിനാൽ v t 0 5 60 30 എന്നതിലേക്ക് e ലേക്ക് പവർ 0 5 by 8 അതിനാൽ ഇത് 31 817 വോൾട്ട് ആകും മറ്റൊന്ന് t 3 സെക്കൻഡിൽ അതിനാൽ t 3 സെക്കൻഡിൽ ഇവിടെ t 60 30 ഇ 3 ലേക്ക് 8 ൽ ഇടുക അതിനാൽ 39 38 വോൾട്ട് ഇതാണ് ഉത്തരങ്ങൾ ഞങ്ങൾ പരിഹരിക്കുന്ന നിരവധി വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും നല്ല പുസ്തകം തുറന്ന് കുറച്ച് പ്രശ്നങ്ങൾ എടുത്ത് സ്വയം ശ്രമിക്കുക കാരണം വിവിധതരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാത്തരം പ്രശ്നങ്ങളും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം അതായത് ഏത് പുസ്തകം തുറക്കുമെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തും ഇവിടെ ചെയ്ത കാര്യങ്ങൾക്ക് സമാനമാണ് അതിനാൽ അടുത്തത് ചിത്രം 42 ൽ ഇത് ചിത്രം 42 ആണ് ഈ സ്വിച്ചിംഗ് സർക്യൂട്ട് സമയത്ത് നമുക്ക് തത്ത്വചിന്തയോ ഭൌതികശാസ്ത്രമോ മനസ്സിലാക്കണം അതിനാൽ ചിത്രം 42 ൽ സ്വിച്ച് എസ് 1 വളരെക്കാലമായി അടച്ചിരിക്കുന്നു ഇത് സ്വിച്ച് ആണ് ഈ സ്വിച്ച് യഥാർത്ഥത്തിൽ ഈ സ്വിച്ച് എസ് 1 വളരെക്കാലം അടച്ചിരുന്നു സ്വിച്ച് എസ് 2 അടച്ചതായി t 0 ന് മറ്റൊരു സ്വിച്ച് ഇവിടെ S 2 ആണ് അത് t 0 സ്വിച്ച് S 2 അടച്ചിരിക്കുന്നു vc 0 ic 0 അതായത് vc 0 എന്നാണ് ഇതിനർത്ഥം ഇത് അതായത് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് vc 0 അതിനാൽ vc 0 എന്നത് vc 0 അല്ലാതെ മറ്റൊന്നുമല്ല കാരണം വോൾട്ടേജ് മാറുന്ന സമയത്ത് കപ്പാസിറ്ററിലുടനീളം തൽക്ഷണം മാറ്റാൻ കഴിയില്ല കൂടാതെ vc കണ്ടെത്തേണ്ടതുണ്ട് അതിനർത്ഥം ഇത് എന്നാണ് ഇതിന്റെ അന്തിമ മൂല്യം എന്തായിരിക്കും ഐസ് ∞ എന്താണ് ഈ ഐസ് ∞ സ്ഥിരമായ സംസ്ഥാന മൂല്യം എന്താണ് Vct യ്ക്കുള്ള പദപ്രയോഗം അതാണ് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം ഇത് 20 ആണ് ഈ സ്വിച്ച് വളരെക്കാലം അടച്ചിരുന്നു ഇപ്പോൾ നോക്കൂ ഈ സ്വിച്ച് S1 വളരെക്കാലം അടച്ചിരുന്നു അതിനാൽ S 2 അടയ്ക്കുന്നതിന് മുമ്പ് കപ്പാസിറ്റർ പൂർണ്ണമായും ചാർജ്ജ് ചെയ്യപ്പെടും കപ്പാസിറ്റർ പൂർണമായും ചാർജ്ജ് ചെയ്യുകയും ഇത് തുറന്നിരിക്കുകയും ചെയ്താൽ അതിനർത്ഥം ഇത് തുറന്നതും ഈ സ്വിച്ച് വളരെക്കാലം അടച്ചതുമാണ് അതായത് കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു അതിനർത്ഥം ഇത് vc 0 എന്നാണ് ഇതിനെ vc 0 എന്ന് വിളിക്കുന്നത് ഇത് തുറന്നിരിക്കുന്നതിനാൽ ഇതും തുറന്നിരിക്കുന്നു അതിനാൽ ഇതിലൂടെ കറന്റ് ഒഴുകുന്നില്ല അടിസ്ഥാനപരമായി vc 0 10 വോൾട്ട് ആയിരിക്കും കാരണം ഇത് കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജാണ് ഞാൻ ഇത് മായ്ക്കട്ടെ ഇത് vc 0 vc 0 10 വോൾട്ട് ആണ് ഇപ്പോൾ ടോപ്പ് ഫിഗർ ഈ സെറ്റ് കണക്ക് സ്വിച്ച് എസ് 2 അടച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സ്വിച്ച് എസ് സ്വിച്ച് എസ് 2 അടുത്താണ് എസ് 1 അടച്ചു ഇപ്പോൾ t ന് തുല്യമാണ് 0 സ്വിച്ച് S 2 അടച്ചിരിക്കുന്നു ഇപ്പോൾ ഈ സ്വിച്ച് അടച്ചിരിക്കുന്നു അതിനാൽ t0 സമയത്ത് KVL KCL എന്നിവ പ്രയോഗിക്കുക സ്വിച്ച് അടയ്ക്കുന്ന സമയത്ത് ഏത് കോൾ സമയത്ത് ഈ സ്വിച്ച് സമയത്ത് സ്വിച്ച് അടച്ചാൽ ആ സമയത്ത് KCL KVL എന്നിവ പ്രയോഗിക്കുക അതിനാൽ ഇവിടെ ഈ മെഷിൽ കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് എങ്ങനെയിരിക്കും അത് 20 i 1 0 vc 0 10 0 ആയിരിക്കും ഇവിടെ ഞങ്ങൾ 20 i 1 0 vc 0 10 0 എന്ന് എഴുതുന്നു അതിനർത്ഥം 20 i 1 0 vc 0 10 എന്നാണ് സ്വിച്ച് അടച്ചാലുടൻ KVL ഇവിടെ പ്രയോഗിക്കുക അത് മാറുന്ന സമയത്ത് 20 i 1 0 ആയിരിക്കും സ്വിച്ച് ചെയ്തതിനുശേഷം കപ്പാസിറ്ററിലുടനീളം ഈ വോൾട്ടേജ് vc 0 10 0 ന് തുല്യമാണ് അതിനാൽ ഞങ്ങൾക്ക് v0 അറിയാം അതിനാൽ ഈ സാഹചര്യത്തിൽ vc 0 ഈ കാര്യം 10 വോൾട്ട് അതിനാൽ ഞാൻ 1 0 0 ആമ്പിയർ ആണ് ഇവിടെ vc 0 vc 0 10 വോൾട്ട് കാരണം സ്വിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കപ്പാസിറ്ററുകൾ വോൾട്ടേജിന് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ 1 0 0 ആമ്പിയർ ആയിരിക്കും ഇപ്പോൾ i2 0 ലേക്ക് വരിക ഇപ്പോൾ i2 0 ഇത് i2 0 ആണ് ആ സമയത്ത് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് vc 0 ആണ് അതിനാൽ ഇത് 20 ആണ് ഇതിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അതിനാൽ i2 0 20 കൊണ്ട് vc 0 ചെയ്യും അതിനാൽ ic 0 vc 0 by 20 അതിനാൽ vc 0 10 വോൾട്ട് അതിനാൽ 10 20 5 ആമ്പിയർ കൂടാതെ ഈ ഘട്ടത്തിൽ ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ KCL ഈ നോഡിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് 1 1 ic 0 i2 0 ലഭിക്കും അതിനാൽ ഞാൻ ഇവിടെ എഴുതുന്നു 1 1 ic 0 i2 0 ഈ സമയത്ത് KCL പ്രയോഗിക്കുക അതിനാൽ 1 0 ic 0 i2 0 അതിനാൽ i 1 0 0 ആയിരുന്നു അതിനാൽ ic 0 i2 0 എന്നത് 0 5 0 ആണ് അതിനാൽ ic 0 is 0 5 ആമ്പിയർ അതിനാൽ ഇത് ഊർജ്ജത്തിന് 5 മുതൽ 10 വരെയാണ് 6 സി മൂല്യം നൽകിയിരിക്കുന്നു Rthevinin കണ്ടെത്തണം അതിനാൽ ഇത് ഒരു കപ്പാസിറ്ററിന്റെ ടെർമിനലാണ് RThevenin കണ്ടെത്തുമ്പോൾ ഈ വോൾട്ടേജ് sce നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ 20 Ω ഉം ഈ 20 ഉം രണ്ടും സമാന്തരമാണ് അതിനാൽ ഇത് 20 ആയിരിക്കും കാരണം ഈ ഘട്ടത്തിൽ ഇത് പോയിന്റ് എ ഇതാണ് പോയിന്റ് ബി ഞങ്ങൾ ആർടിവെനിൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അതിനാൽ ഇത് 20 മുതൽ 20 വരെ 20 20 ആയിരിക്കും ഇത് RThevenin കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ RThevenin 10 അതിനാൽ ഇതിനുമുമ്പ് നമ്മൾ കണ്ടത് RThevenin എന്ന് വിളിക്കാം അതിനാൽ ഇത് ഞങ്ങൾക്ക് ലഭിച്ചു ഇതിനെ എന്താണ് RThevenin നേരിട്ട് വിളിക്കുന്നത് ഞങ്ങൾ 20 മുതൽ 2020 20 വരെ എഴുതുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഏത് 10 ആണ് അതിനാൽ 5 മുതൽ 10 വരെ ഗുണിച്ച് 6 അതിനാൽ ഇത് 5 മുതൽ 10 വരെ ആയിരിക്കും 5 സെക്കൻഡ് T എന്നത് ∞ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു അതിനാൽ ഈ കാര്യത്തിനായി സ്വിച്ച് അടച്ചിരിക്കുന്നു കാരണം ഇത് വളരെക്കാലം അടച്ചിരുന്നു അതിനാൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽic ∞ 0 കാരണം സ്വിച്ച് ദീർഘനേരം അടയ്ക്കുമ്പോൾ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും അതിനാൽ ic ∞ 0 vc 10 എന്നിവ 10 മുതൽ 20 വരെ 40 5 വോൾട്ട് ആയിരിക്കും അതിനാൽ ഇവിടെ വന്നാൽ vc be എന്തായിരിക്കും അതിനാൽ നോക്കിയാൽ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ട് പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് തുറന്നതാണെന്നതാണ് ചോദ്യം ഇത് തുറന്നതാണ് അതിനാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര എന്താണെന്ന് കണ്ടെത്തുക അതിനാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര എന്താണ് i ഇത് 10 ബൈ 20 Ω 20 is ആണ് അതിനാൽ 20 20 അതിനാൽ 40 എന്നത് 1 ബൈ 4 ആമ്പിയർ ആണ് ഇതിനെ നിലവിലെ ഒഴുകുന്നതും ഈ വോൾട്ടേജും 1 ഉം 4 ആമ്പിയർ എന്ന് വിളിക്കുന്നു അതിനാൽ ആ സമയത്ത് ഒന്നുമില്ല അത് ഒരു സ്ഥിരമായ അവസ്ഥയാണ് അത് ഒരു സ്ഥിരമായ അവസ്ഥയാണ് അത് at ആണ് അതിനർത്ഥം സർക്യൂട്ട് വോൾട്ടേജ് തുറക്കുക അതായത് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് vc that അതായത് vc voltage ഇതാണ് വോൾട്ടേജ് vc ∞ ഇതാണ് വോൾട്ടേജ് ഈ 20 ഈ 1 മുതൽ 4 ആമ്പിയർ വരെ അതായത് 5 വോൾട്ട് കപ്പാസിറ്റർ ആ സമയത്ത് ഓപ്പൺ സർക്യൂട്ടാണ് അതിനാൽ കറന്റ് ഇതുപോലെ ഒഴുകേണ്ടതുണ്ട് ഈ കപ്പാസിറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ 20 Ω പ്രതിരോധം കപ്പാസിറ്ററിലുടനീളം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ vc ∞ 20 മുതൽ 1 മുതൽ 4 വരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ 5 വോൾട്ട് അതിനാൽ അതിനർത്ഥം vc 0 vc ∞ എല്ലാം നമുക്ക് അറിയാം അതിനാൽ 5 വോൾട്ട് ഇത് vc ∞ നേരിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിനാൽ vc t vc ∞ അതേ സൂത്രവാക്യം അത് vc ∞ vc 0 vc ∞ e പവർ t τ സാമാന്യവൽക്കരിച്ച ഫോർമുല പകരമായി vc ∞ 5 വോൾട്ട് vc 0 10 vc ∞ 5 e എന്നിവയിലേക്ക് t എന്നിട്ട് ഊർജ്ജത്തിലേക്ക് 5 മുതൽ 10 വരെ 5 അതായത് t എന്നതിനേക്കാൾ t സമയ സ്ഥിരതയാണ് അതിനാൽ അതിനർത്ഥം vc t 5 5 e പവറിന് 2 മുതൽ 10 വരെ പവർ 4 t അതായത് 0 എന്നതിനേക്കാൾ വലുതാണ്